നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെ ഈ സെഷനിലേക്ക് സ്വാഗതം മാനേജിംഗ് സർവീസ് ഡെലിവറി ചാനൽ എന്ന ഇരുപത്തി മൂന്നാം നമ്പർ പാഠം നമുക്ക് നോക്കാം അതിന് രണ്ടു ഭാഗങ്ങളുണ്ട് മാനേജിംഗ് ലൊക്കേഷനും അതുപോലെ മാനേജിംഗ് ക്വാളിറ്റി ഓഫ് ഇലക്ട്രോണിക് ചാനലും ആരംഭിക്കുന്നതിന് നമ്മുടെ കമ്പനി ഔട്ട്ലെറ്റുകൾ വഴി നമ്മുടെ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ എത്തിക്കാൻ കഴിയും വിദൂര വിദ്യാഭ്യാസം നികുതി ഉപദേശം എന്നിവ പോലുള്ള വിവര അധിഷ്ഠിത സേവനങ്ങൾ നൽകാൻ നമുക്ക് ഇലക്ട്രോണിക് ചാനലുകൾ ഉപയോഗിക്കാം എന്നിരുന്നാലും നമ്മുടെ ബിസിനസ്സ് വളർത്തുന്നതിന് നമ്മുടെ സേവനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മറ്റ് സഹകാരികളുടെ സഹായം തേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സേവനങ്ങൾ വിൽക്കാൻ ടിക്കറ്റിംഗ് പോലുള്ളവ ഏജന്റുമാരുടെ സഹായം തേടാനും ഉപഭോക്താക്കൾക്ക് നമ്മുടെ ബ്രാൻഡ് സേവനങ്ങൾ നൽകുന്നതിനായി നമ്മുടെ ബിസിനസുകളിലേക്കും ഫ്രാഞ്ചൈസികളിലേക്കും പ്രത്യാശ അതായത് സാധ്യതയുള്ള ഉപഭോക്താക്കൾ കൊണ്ടുവരാൻ ബ്രോക്കർമാരുടെ സഹായം തേടാനും നാം ആഗ്രഹിച്ചേക്കാം ഘടനയും ഗുണനിലവാരവും നിയന്ത്രിക്കാനും ഉപഭോക്തൃ ആവശ്യങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് നേരിട്ട് അറിവ് നേടാനും മെച്ചപ്പെട്ട അല്ലെങ്കിൽ പുതിയ സേവനങ്ങൾ വികസിപ്പിക്കാനും നമ്മുടെ ഉപഭോക്താക്കളെ അറിയാനും അവരുമായി അടുത്ത ബന്ധം നിലനിർത്താനും കഴിയുന്നതിനാൽ എല്ലായ്പ്പോഴും കമ്പനി ഉടമസ്ഥതയിലുള്ള ഔട്ട്ലെറ്റുകളാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റീട്ടെയിൽ ഔട്ട്ലെറ്റുകളുടെ സ്ഥാനം ഒരു സുപ്രധാന തീരുമാനമാണ് അത് നമ്മൾ തുടർന്നുള്ള വിഭാഗത്തിൽ വിശദീകരിക്കാൻ പോകുന്നു ഒരു വിജയകരമായ ആശയവും ഘടനയും ഒരു നിശ്ചിത കാലയളവിൽ സുവ്യക്തമായി കഴിഞ്ഞാൽ നിക്ഷേപം നടത്താനും നമ്മുടെ ബ്രാൻഡ് സേവനങ്ങൾ പുതിയ മാർക്കറ്റുകളിൽ എത്തിക്കുന്നതിനുള്ള റിസ്ക് എടുക്കാനും ഒരു ഫ്രാഞ്ചൈസിയെ നമ്മൾ അനുവദിച്ചേക്കാം അതേസമയം നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ നിന്ന് ലൈസൻസ് ഫീസ് നേടാനാകും എന്നിരുന്നാലും ഒരു ഫ്രാഞ്ചൈസിയിലൂടെ പ്രവർത്തിക്കാനുള്ള വെല്ലുവിളികൾ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിൽ ഗുണനിലവാരത്തിലും ജീവനക്കാരുടെ പ്രചോദനത്തിലും നിയന്ത്രണങ്ങളുടെ അഭാവം റോളുകളെക്കുറിച്ചുള്ള അവ്യക്തത ഫ്രാഞ്ചൈസിയുമായുള്ള ഉയർന്ന പരസ്യമായ പൊരുത്തക്കേടുകൾ ഉപഭോക്താക്കളുടെ നേരിട്ടുള്ള അറിവില്ലായ്മ അവരുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യകതകൾ എന്നിവ ഉൾപ്പെടുന്നു ബിസിനസ് പ്രവർത്തിപ്പിക്കുന്നതിനായി ഫ്രാഞ്ചൈസി സ്ഥിരമായാൽ സേവനത്തിന്റെ ഗുണനിലവാരവും ഫോർമാറ്റും നിലനിർത്തുകയും ആനുകാലിക പരിശീലനത്തിനും വികസനത്തിനുമായി തന്റെ ജീവനക്കാരെ അയക്കുകയും ഉപഭോക്താക്കളെ നേടുന്നതിനും നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കൽ ഉദ്യമങ്ങളിൽ പങ്കെടുക്കുകയും വേണം സാധാരണ ഗതിയിൽ ലൈസൻസ് ഫീസ് അടയ്ക്കുന്നതും അതേ ബ്രാൻഡിന്റെ മറ്റ് ഫ്രാഞ്ചൈസികൾ അയാളുടെ പ്രദേശത്ത് കയ്യേറുന്നതും സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഫലപ്രദമായ തർക്ക പരിഹാരത്തിനുള്ള തന്ത്രങ്ങൾ അടുത്ത വിഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യും Refer Slide time 02 43 പ്രാദേശിക വിപണികളുമായി നമുക്ക് കഴിയുന്നതിനേക്കാൾ മികച്ച ബന്ധം ഏജന്റുമാർക്കും ബ്രോക്കർമാർക്കും ഉണ്ടെന്നതിനാൽ നമ്മുടെ കച്ചവടത്തെ സഹായിക്കാൻ അവർക്ക് കഴിയും ഉദാഹരണത്തിന് ഒരു വലിയ ഹോട്ടലിലേക്ക് ഉപഭോക്താക്കളെ കൊണ്ടുവരുന്നതിനായി ബ്രോക്കർമാരെന്ന നിലയിൽ ധാരാളം ടാക്സി ഓപ്പറേറ്റർമാർക്ക് ഇരട്ടിയാകാം അതുപോലെ നമ്മുടെ സ്വന്തം ഉദ്യോഗസ്ഥർ മുഖേന സേവനങ്ങൾ ആക്സസ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉപഭോക്താക്കളോട് അടുത്തുള്ള ഔട്ട്ലെറ്റുകളിൽ ധാരാളം സേവനങ്ങൾ വിൽക്കാൻ ഒരുപാട് ഏജൻറ്മാർക്ക് കഴിയും എന്നിരുന്നാലും പോരായ്മകൾ എന്തെന്നാൽ ഏജന്റുമാരും ബ്രോക്കർമാരും സാധാരണയായി നമ്മുടെ മത്സരത്തിനായി പ്രവർത്തിക്കുന്നു എന്നതാണ് കൂടാതെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് ഡിഫറൻഷ്യൽ മൂല്യം നൽകാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് ഉപഭോക്തൃ വിഭാഗത്തിന് ഇൻറർനെറ്റിലേക്ക് ആക്സസ് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും വിലകുറഞ്ഞ സേവന ഡെലിവറിയാണ് ഇന്റർനെറ്റ് ചാനലുകൾ ഇത് നമ്മുടെ ഉപഭോക്താക്കൾക്കും പ്രയോജനകരമാണ് കാരണം ഇത് യാത്ര കുറയ്ക്കുന്നതിലൂടെ സമയവും ഊർജ്ജവും വിഭവങ്ങളും ലാഭിക്കുകയും ഉപഭോക്താവിന് സൌകര്യവും വഴക്കവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും നമുക്ക് വേഗത്തിൽ ഉപഭോക്തൃ ഫീഡ്ബാക്ക് സ്വീകരിക്കാനും അതുപോലെ ഉപഭോക്താവിന് ഇന്റർനെറ്റിലൂടെ ലഭ്യമായ നമ്മുടെ എല്ലാ എതിരാളികളെയും ആക്സസ് ചെയ്യാനും കഴിയുമെങ്കിലും ഉപഭോക്താവുമായി നേരിട്ടുള്ള ഇടപെടൽ കുറച്ച് കൊണ്ട് നാം പൊരുത്തപ്പെടേണ്ടതുണ്ട് കൂടാതെ ഇലക്ട്രോണിക് ഡെലിവറി ചാനൽ ഏജന്റുമാരുടെയും ബ്രോക്കർമാരുടെയും ഫ്രാഞ്ചൈസികളുടെയും താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടാതെ വരാനും എല്ലാ ബിസിനസുകളോടും ഒരേ സമയം നീതി പുലർത്താൻ തീരുമാനങ്ങൾ എടുക്കുകയും വേണം ഇലക്ട്രോണിക് ഡെലിവറി ചാനലുകളിലെ മറ്റ് ആശങ്ക ഇലക്ട്രോണിക് സേവന നിലവാരത്തിന്റെ പരിപാലനമാണ് അത് തുടർന്നുള്ള വിഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ചാനൽ സംഘർഷത്തിന്റെ മാനേജ്മെന്റിലേക്ക് നമുക്ക് ഇപ്പോൾ ശ്രദ്ധ തിരിക്കാം നമ്മുടെ സേവന ഔട്ട്ലെറ്റുകളുടെ സ്ഥാനം സംബന്ധിച്ച തീരുമാനം പ്രധാനമാണ് കാരണം അത് നമ്മുടെ ഔട്ട്ലെറ്റ് സന്ദർശിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണവും വ്യക്തികളുടെയും വസ്തുക്കളുടെയും വസ്തുവകകളുടെയും ഗതാഗതത്തിന്റെയും വിലയും നിർണ്ണയിക്കും നമ്മുടെ സേവന ഔട്ട്ലെറ്റ് ഒരു നഗരത്തിനുള്ളിലെ ഒരു സ്ഥലത്തായിരിക്കും സ്ഥിതി ചെയ്യുക അതുകൊണ്ടുതന്നെ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും തീരുമാനിക്കേണ്ടതുണ്ട് നഗരത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത് അവിടുത്തെ ജനസംഖ്യ നമ്മുടെ സേവനങ്ങൾക്കുള്ള അവരുടെ ആവശ്യം വാങ്ങൽ ശേഷി എന്നിവ പരിഗണിച്ചാണ് ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്കായി വിവിധ വാണിജ്യ ജില്ലകൾ ആകർഷിക്കുന്ന ആകർഷണം പ്രദേശത്ത് നിലനിൽക്കുന്ന മത്സരത്തിന്റെ സ്വഭാവം നഗരത്തിന്റെ വ്യാപനത്തിന്റെ ദിശ സോണിംഗ് നിയന്ത്രണങ്ങൾ ആക്സസ് റോഡുകളുടെ ലഭ്യത സൈറ്റിന്റെ ദൃശ്യപരത പാർക്കിംഗ് എന്നിവ പരിഗണിച്ചാണ് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത് ഒരു വാണിജ്യ ജില്ല മധ്യ ദ്വിതീയ അല്ലെങ്കിൽ അയൽപക്ക തരമായിരിക്കാം സെൻട്രൽ ബിസിനസ് ജില്ലകളിൽ വാടക വളരെ കൂടുതലാണ് ശരിയായ പാർക്കിംഗ് സ്ഥലം ലഭിക്കുന്നതും ഒരു പ്രശ്നമായിരിക്കാം ഒരു സെക്കൻഡറി ബിസിനസ് ജില്ലയ്ക്ക് ഒരു ചെറിയ വ്യാപാര മേഖല ഉണ്ടായിരിക്കും അതായത് സേവിക്കാൻ കഴിയുന്ന ജനസംഖ്യ ചെറുതായിരിക്കും എന്നിരുന്നാലും ഇതിന് കേന്ദ്ര ബിസിനസ്സ് ജില്ലയുടെ ദോഷങ്ങളുണ്ടാകില്ല അയൽപക്ക ബിസിനസ് ജില്ലയ്ക്ക് അതിന്റെ അയൽപക്കത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ചെറുകിട ബിസിനസിനെ മാത്രമേ പിന്തുണയ്ക്കാനാകൂ ഒരു ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ ഉള്ളതിനു പുറമേ ഒരു പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു വസ്തുവായി കൈകാര്യം ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് സെന്ററിന്റെ ഭാഗമോ പോലെയുള്ള ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒന്നാവാം നമ്മുടെ ഔട്ട്ലെറ്റ് ഒരു ഒറ്റപ്പെട്ട ഔട്ട്ലെറ്റിന് മത്സരമില്ലെങ്കിലും ഉപഭോക്താക്കളെ അവരുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ഔട്ട്ലെറ്റ് സന്ദർശിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് നമ്മൾ പരസ്യത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ഇന്ധനച്ചെലവ് വർദ്ധിക്കുന്നതിനാൽ ഒരു സേവനത്തിനായി ദീർഘദൂര യാത്ര ചെയ്യാൻ ഉപഭോക്താക്കൾ സാധാരണഗതിയിൽ ഇഷ്ടപ്പെട്ടേക്കില്ല ഷോപ്പിംഗ് സെന്ററുകൾക്ക് ഒരു ആധുനിക മാനേജ്മെന്റും കാഴ്ചപ്പാടും ഉണ്ട് നമ്മുടെ സേവനം ആധുനിക ട്രെൻഡുകളുമായും ട്രെൻഡിയായ ഉപഭോക്താക്കളുമായും യോജിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ചും അനുയോജ്യവുമാണ് ഇനി നാം റീട്ടെയിൽ സ്ഥലം തീരുമാനിക്കുന്നതിലേക്ക് വരുന്നു പ്രൊഫസർ ഡൻകൻ ആർ ലൂസ് 1959 ൽ അവതരിപ്പിച്ച ലൂസ് ചോയ്സ് ആക്സിയത്തിൽ നിന്ന് പിന്തുടരുന്ന ഒരു ഫോർമുല ഉപയോഗിച്ച് ഒരു ഉപഭോക്താവ് വസ്തുവിന്റെ ചില ഗുണങ്ങളുള്ള ഒരു വസ്തു തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കണക്കാക്കാൻ മൾട്ടിപ്ലിക്കേറ്റിവ് കോംപ്റ്റിറ്റിവ് ഇന്റെറാക്ഷൻ മാതൃക ഉപയോഗിക്കാമെന്നാണ് പ്രൊഫസർ നകാനിഷിയും കൂപ്പറും 2007 ൽ എഴുതിയത് ഔട്ട്ലെറ്റിനായുള്ള ഒരു എംസിഐ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ആകർഷണീയ സൂചികയിൽ സംയോജിപ്പിച്ച് പ്രത്യേക ഔട്ട്ലെറ്റിൽ നിന്ന് സേവനങ്ങൾ വാങ്ങുന്നതിന് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്ന വിവിധ മാനദണ്ഡങ്ങൾ ഈ മോഡൽ ശ്രദ്ധിക്കുന്നു നിർദ്ദിഷ്ട ഔട്ട്ലെറ്റിൽ എത്തിച്ചേരാൻ ഉപഭോക്താക്കൾക്ക് വേണ്ടി വരുന്ന ദൂരപരിധിയും ഭൌതികവും ബ്രാൻഡ് ഇമേജിലും പ്രതിഫലിച്ചിട്ടുള്ള അതിന്റെ ആകർഷണീയതയും പ്രതീക്ഷിക്കപ്പെടുന്ന സേവന നിലവാരവും സേവനത്തിന്റെ തരം അനുസരിച്ച് ഉപഭോക്താക്കൾ അന്വേഷിക്കുന്ന മറ്റ് ഗുണങ്ങളും ഈ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടും ഭാവിയിൽ ആസൂത്രണ കാലയളവിൽ ഒരു 15 വർഷത്തിൽ സംഭവിക്കാനിടയുള്ള വിവിധ അനിശ്ചിത സാഹചര്യങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷം ഒരേ ബ്രാൻഡിന്റെയും മത്സര ബ്രാൻഡുകളുടെയും നിലവിലുള്ള ഔട്ട്ലെറ്റുകൾ കണക്കിലെടുത്ത് ഒരു പുതിയ സേവന സൌകര്യത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ മുകളിലുള്ള മാതൃക ഉപയോഗിക്കാം പരമാവധി കണക്കാക്കിയ മാർക്കറ്റ് ഷെയറും വരുമാനവുമുള്ള ഔട്ട്ലെറ്റ് ലൊക്കേഷൻ ഈ മോഡൽ വെളിപ്പെടുത്തുന്നു സർവീസ് ഔട്ട്ലെറ്റ് കണ്ടെത്തിയാൽ അത് സ്ഥിതി ചെയ്യുന്ന സാഹചര്യം തെറ്റായിപ്പോകാനും അത് ഒരു തെറ്റിദ്ധാരണയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യം പരിപാലിക്കുന്നതിനായി പ്രൊഫസർ ടമ്മി ഡ്രെസ്നർ 2009 ൽ കാണിച്ചിരിക്കുന്ന ലോ റിഗ്രെറ് മോഡൽ എങ്ങനെയാണ് ഒരു ലൊക്കേഷനെ സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നു അങ്ങനെ അനുമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളുടെ വികസനം നടക്കാത്തതിനാൽ കുറഞ്ഞ നഷ്ടം സംഭവിക്കും ഇലക്ട്രോണിക് ചാനലിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നു പ്രൊഫസർ എ പരശുരാമന്റെ അഭിപ്രായത്തിൽ ഇ സർവീസ് ഗുണനിലവാരം എന്നത് ഒരു വെബ്സൈറ്റ് ഉൽപന്നങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിതരണവും കാര്യക്ഷമമായി നടത്തുന്നതിന് സഹായിക്കുന്നു 2005 ൽ പ്രൊഫസർമാരായ പരശുരാമൻ സീതാംൽ മൽഹോത്ര എന്നിവർ ഇ സർവീസ് ക്വാളിറ്റിയുടെ അളവുകൾ കാതലായ അളവുകളും വീണ്ടെടുക്കൽ അളവുകളും എന്നിങ്ങനെ രണ്ട് തലങ്ങളിൽ തരം തിരിച്ചിട്ടുണ്ട് ഈ അളവുകളും അടുത്തതായി ചർച്ച ചെയ്യും അതിനാൽ ഇ സേവന ഗുണനിലവാരത്തിന്റെ പ്രധാന അളവുകൾ ഒന്നാമതായി ഇതിന് കാര്യക്ഷമത പൂർത്തീകരണം സിസ്റ്റം ലഭ്യത സ്വകാര്യത എന്നിങ്ങനെ നാല് പ്രധാന മാനങ്ങൾ ഉണ്ടായിരിക്കണം കാര്യക്ഷമത എന്നാൽ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള എളുപ്പവും വേഗതയും ഇതിൽ ഉൾപ്പെടുന്നു നിറവേറ്റൽ എന്നതിൽ ഡെലിവറി സംബന്ധിച്ച സൈറ്റിന്റെ വാഗ്ദാനങ്ങൾ എത്രത്തോളം നിറവേറ്റപ്പെടുന്നു എന്നതാണ് സിസ്റ്റം ലഭ്യതയിൽ വെബ് സൈറ്റിന്റെ ശരിയായ സാങ്കേതിക പ്രവർത്തനം ആണ് കൂടാതെ സ്വകാര്യതയിൽ സൈറ്റ് എത്രത്തോളം സുരക്ഷിതമാണെന്നും ഉപഭോക്തൃ വിവരങ്ങൾ പരിരക്ഷിക്കുമെന്നും ഉള്ളതാണ് പരാജയങ്ങളുടെ സമയത്ത് വീണ്ടെടുക്കൽ അളവുകൾ പ്രതികരണശേഷി എന്നത് സൈറ്റിലൂടെ ഉള്ള പ്രശ്നങ്ങളും വരുമാനവും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നഷ്ടപരിഹാരം എന്നത് സൈറ്റ് ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന തോത് ആണ് ഇടപെടൽ എന്നത് ടെലിഫോണിലൂടെയും ഓൺലൈൻ പ്രതിനിധികളിലൂടെയും ഉള്ള സഹായത്തിന്റെ ലഭ്യതയാണ് മികച്ച വെബ്സൈറ്റുകൾ ഉപയോക്തൃ സൌഹൃദവും സാങ്കേതികമായി സങ്കീർണ്ണവും കൂടാതെ അതിൽ ഉപഭോക്താക്കൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ അവരെ സഹായിക്കാൻ ഇതര ചാനലും ഉണ്ട് സേവനങ്ങൾ നൽകുന്നതിൽ ഏജന്റുമാർ ബ്രോക്കർമാർ ഫ്രാഞ്ചൈസികൾ തുടങ്ങിയ സഹകാരികളുടെ പങ്ക് ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്തു ഇന്റർ ചാനൽ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങളും ഇലക്ട്രോണിക് ഡെലിവറി ചാനലുകളുടെ ഗുണനിലവാരവും ചർച്ച ചെയ്തു ഡെലിവറിയും ശേഷിയും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടുത്ത പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ഇത് കേട്ട് ഇരുന്നതിന് നന്ദി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു